കഴിഞ്ഞ കുറച്ച് ക്ലാസുകളിൽ മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡിന്റെയും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങളുടെയും വികസനം നമ്മൾ സമഗ്രമായി പരിശോധിച്ചു പ്രത്യേകിച്ചും നിങ്ങൾ എക്സ്പെരിമെന്റൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡും ഡിസ്പ്ലേസ്മെൻറ് ഫീൽഡും ഉപയോഗപ്രദമാണ് ഞാൻ പറഞ്ഞു മിക്ക ഫ്രാക്ച്ചർ സിദ്ധാന്തങ്ങളും ഇപ്പോഴും സിംഗുലാർ ടേമിന്റെ പ്രാധാന്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സമീപകാലത്തെ ചില സിദ്ധാന്തങ്ങൾ മാത്രം ശരിക്കും രണ്ടാമത്തെ പദം കണക്കിലെടുത്തു അതിനാൽ ആ കാഴ്ചപ്പാടിൽ ബാക്കി കോഴ്സിനായി നമ്മൾ സിംഗുലാർ സൊല്യൂഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും വൈവിധ്യമാർന്ന ജ്യാമിതികളുടെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കണ്ടെത്തുന്നതിന് ഫോക്കസ് പ്രധാനമാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ഉപയോഗിച്ച് ലോഡുചെയ്ത ക്രാക്ക് ഫേസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണ് ലോഡുചെയ്ത ക്രാക്ക് സർഫേസിന്റെ പ്രശ്നം നമ്മൾ പരിശോധിച്ചു നിങ്ങൾക്ക് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട് അത് ക്രാക്ക് ഫേസ് തുറക്കാൻ ശ്രമിക്കുന്നു ഈ സാഹചര്യത്തിൽ ഭാഗ്യവശാൽ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ലഭ്യമാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഫംഗ്ഷൻ ലഭിച്ചുകഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും എന്താണ് പ്രയോജനം എനിക്ക് ഒരു അനാലിറ്റിക്കൽ സമീപനമുണ്ടെങ്കിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറിന്റെ മൂല്യത്തിനായി ഒരു എക്സ്പ്രഷൻ നേടാൻ കഴിയും അതിനാൽ കൂടുതൽ കണക്കുകൂട്ടൽ നടത്താതെ ആ എക്സ്പ്രഷൻ നോക്കി കൊണ്ട് ആ എക്സ്പ്രഷൻ നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് അറിയാം നമ്മൾ കണ്ട ശ്രദ്ധേയമായ സവിശേഷത എന്താണ് നമുക്ക് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ലഭിച്ചുK I ഈക്വൽ റ്റു P ബൈ റൂട്ട് ഓഫ് പൈ a നിങ്ങൾ ഉടനടി കണ്ടെത്തുന്നത് ക്രാക്ക് നീളം ലോഡ് പി യുടെ താഴെയാണ് അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് ക്രാക്കിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കുറയുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് എനിക്ക് ഒരു അനാലിറ്റിക്കൽ എക്സ്പ്രഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ന്യൂമെറിക്കൽ വിശകലനത്തിലൂടെ മാത്രമേ എനിക്ക് പരിഹരിക്കാൻ കഴിയൂ അങ്ങിനെ വന്നാൽ വിവിധ ക്രാക്ക് ദൈർഘ്യങ്ങൾക്കായി എനിക്ക് ഫലം ലഭിക്കേണ്ടതുണ്ട് അതിനു ശേഷം ഒരുതരം എംപിരിക്കൽ റിലേഷൻ ഉണ്ടാക്കുക എന്താണ് സ്വഭാവം എന്ന് നിരീക്ഷിക്കുക അതിനാൽ ഏത് പ്രശ്നത്തിലും നിങ്ങൾക്ക് ഒരു അനാലിറ്റിക്കൽ സമീപനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനാലിറ്റിക്കൽ എക്സ്പ്രഷനുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സൌകര്യപ്രദമായ ബന്ധമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ കേസിന് എനിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് സമാനമായ മറ്റ് പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഇത് കണ്ടെത്താനും ഉപയോഗിക്കാനും കഴിയും അവസാന ക്ലാസ്സിൽ ഞാൻ സിമെട്രിക് ആയി ലോഡ് ചെയ്ത ക്രാക്ക് ഫേസ് ഉള്ള മറ്റൊരു കേസും നമ്മൾ ചെയ്തിരുന്നു ക്രാക്കിന്റെ മധ്യഭാഗത്ത് നിന്ന് പ്ലസ് S മൈനസ് S ദൂരത്തിൽ നിങ്ങൾക്ക് രണ്ട് ഫോഴ്സ് ഉണ്ട് ഈ രീതിയിൽ നമുക്ക് സ്ട്രെസ് ഫംഗ്ഷൻ ലഭിച്ചു സ്ട്രെസ് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും നിങ്ങൾക്ക് സ്ട്രെസ് ഫംഗ്ഷൻ നൽകി കൂടാതെ ഈ സ്ട്രെസ് ഫംഗ്ഷനുകൾ ക്രാക്ക് സെന്ററിൽ ഉത്ഭവിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മെത്തഡോളജി ഉണ്ട് സ്ട്രെസ് ഫംഗ്ഷൻ അറിഞ്ഞുകഴിഞ്ഞാൽ ഉറവിടം ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റുക തുടർന്ന് ലിമിറ്റ് പ്രയോഗിക്കുക വാസ്തവത്തിൽ ഇത് നിങ്ങളോട് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളിൽ എത്രപേർ ഇത് ശരിക്കും പരിഹരിച്ചെന്ന് എനിക്ക് ഉറപ്പില്ല എന്തായാലും നമുക്ക് എക്സ്പ്രഷൻസ് പരിശോധിക്കാം നമ്മൾ ആരംഭിച്ച സ്ട്രെസ് ഫംഗ്ഷനാണിത് അടുത്ത ഘട്ടം നിങ്ങൾ ഒറിജിൻ ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റണം z എന്ന എക്സ്പ്രഷൻ z നോട്ട് പ്ലസ് എ ആകും റൂമുകളിൽ ഇത് ചെയ്തവർ ദയവായി എക്സ്പ്രഷൻസ് പരിശോധിക്കുക z എന്നതിന് പകരമായിz നോട്ട് പ്ലസ് എ കൊടുക്കുക എനിക്ക് ZI ഈക്വൽ റ്റു 2P ഇന്റു z നോട്ട് പ്ലസ് എ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് s സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ഇന്റു z നോട്ട് പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് s സ്ക്വയർ ഇന്റു സ്ക്വയർ റൂട്ട് ഓഫ് z നോട്ട് പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് a സ്ക്വയർ കൂടാതെ ഇത് വളരെ ലളിതമാണ് അടുത്ത കൂട്ടം എക്സ്പ്രഷൻസ് നിങ്ങൾ ഇത് വിപുലീകരിച്ച രീതിയിൽ എഴുതുന്നു നിങ്ങൾ ഇത് ലളിതമാക്കുക നിങ്ങൾ ഇത് ലളിതമാക്കുമ്പോൾ ഇത് zനോട്ട് സ്ക്വയേർഡ് പ്ലസ് 2 az നോട്ട് ആകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് പ്രയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് പൂജ്യം ബൈ പൂജ്യം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എൽ ഹോസ്പിറ്റൽ നിയമത്തിലേക്ക് പോകുകവീണ്ടും ലിമിറ്റ് കണ്ടെത്തുക ഈ രീതിയിൽ നിങ്ങൾ ZI പ്രകടിപ്പിച്ചുകഴിഞ്ഞാൽ ലിമിറ്റ് പ്രയോഗിക്കാൻ കഴിയും അതിനാൽ അടുത്ത ഘട്ടം നിങ്ങൾ ലിമിറ്റ് പ്രയോഗിക്കണം സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെ നിർവചനത്തിൽ നിന്ന് നമുക്കറിയാം K I ഈക്വൽ റ്റു z നോട്ട് റ്റെൻഡ്സ് ടു 0 റൂട്ട് ഓഫ് ടു പൈ z നോട്ട് ഇന്റു സ്ട്രെസ് ഫങ്ഷൻ ഇൻ z നോട്ട് ഞാൻ ഈ എക്സ്പ്രഷൻ മാറ്റിയെഴുതുമ്പോൾ ഇതും കൂടുതൽ ലളിതമാക്കുന്നു എനിക്ക് 2 z നോട്ടും റൂട്ട് ഓഫ് 2 z നോട്ടും ഉണ്ട് ഇവ രണ്ടും റദ്ദാക്കപ്പെടും ഞാൻ z നോട്ട് 0 ആക്കുമ്പോൾ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ K I നായി നിങ്ങൾക്ക് ഒരു അന്തിമ എക്സ്പ്രഷൻ ലഭിക്കും ആ എക്സ്പ്രഷൻ 2 Pa റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് s സ്ക്വയർ ഡീവൈഡഡ് ബൈ റൂട്ട് ഓഫ് പൈ ഇന്റു a സ്ക്വയർ മൈനസ് s സ്ക്വയർ ഇന്റു റൂട്ട് ഓഫ് a ആണ് ഒന്ന് കൂടി ലളിതമാക്കിയാൽ K I ഈക്വൽ റ്റു 2P റൂട്ട് ഓഫ് പൈ a ഡീവൈഡഡ് ബൈ പൈ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് s സ്ക്വയർ എന്ന് കിട്ടും അതിനാൽ ഈ വ്യായാമത്തിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ലഭിച്ചുകഴിഞ്ഞാൽ നിർവചനത്തിൽ നിന്ന് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനായി ഒരു അനാലിറ്റിക്കൽ എക്സ്പ്രഷൻ നേടാൻ നിങ്ങൾക്ക് കഴിയും ഇത് തികച്ചും നേരിട്ടുള്ള ഒരു വ്യായാമമാണ് ഈ എക്സ്പ്രഷൻ ശരിയാണോയെന്ന് പരിശോധിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് ഒരു പ്രശ്നമുള്ളതിനാൽ നമ്മൾ ഇതിനകം കണ്ടു നിങ്ങൾക്ക് സെന്റെറിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ S പൂജ്യത്തിന് തുല്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രയോഗിച്ച ലോഡ് ഇന്റു 2 അപ്പോൾ ഡിവൈഡ് ബൈ 2 അതിനാൽ KI ഈക്വൽ റ്റു P ബൈ റൂട്ട് ഓഫ് പൈ a എന്ന് നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ ശരിയായ ദിശയിലേക്ക് പോകുന്നുവെന്നതിന്റെ പരോക്ഷ പരിശോധനയാണിത് അസിമെട്രിക് വെഡ്ജ് ലോഡ് ഉള്ള ക്രാക്ക് ഫേസ് ഇപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ കേസ് ഉണ്ട് അവിടെ എനിക്ക് ഒരു സിമെട്രിക് ലോഡ് ഇല്ല എനിക്ക് ഒരു അസിമെട്രിക് വെഡ്ജ് ലോഡ് ഉണ്ട് നിങ്ങൾക്ക് ആനിമേഷൻ കാണാം ക്രാക്ക് ഫേസ് തുറന്നിരിക്കുന്നു ലോഡ് ഒറിജിനിൽ നിന്ന് അകലെയാണ് പ്രയോഗിക്കുന്നത് ഇതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കുക ഞാൻ ക്രാക്ക് ടിപ്പിനെ എ ബി എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിൽ ഒരു ഉദ്ദേശ്യമുണ്ട് എനിക്ക് അസിമെട്രിക് ലോഡ് ഉള്ളപ്പോൾ കാണുക നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ കണ്ട എല്ലാ പ്രശ്നങ്ങളിലും ക്രാക്ക് ടിപ്പിൽ നമ്മൾ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ വിലയിരുത്തി എനിക്ക് ഒരു സെന്റർ ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും തിക്നെസിലൂടെ ഉള്ള കട്ടിയുള്ള ക്രാക്ക് കണ്ടു രണ്ട് അഗ്രങ്ങളിലെയും സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ഒന്നുതന്നെയായിരുന്നു ഫാർ ലോഡിംഗിൽ നിങ്ങൾ ഒരേപോലെ ലോഡ് പ്രയോഗിച്ച ഒരു കേസ് നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ബൈ ആക്സിയൽ ലോഡിംഗ് സാഹചര്യം നോക്കി പിന്നെ നമുക്ക് ക്രാക്ക് ഫേസിൽ സിമെട്രിക് ലോഡിംഗ് ഉണ്ടായിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് കണ്ടത് നിങ്ങൾക്ക് ഒരു സെന്റർ ക്രാക്ക് ഉള്ളപ്പോൾ രണ്ട് ക്രാക്ക് ടിപ്പുകൾക്കും ഒരേ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഉണ്ടായിരുന്നു എനിക്ക് ഇതുപോലുള്ള ഒരു അസിമെട്രിക് ലോഡ് ഉള്ളപ്പോൾ അങ്ങനെയാകില്ല മധ്യഭാഗത്ത് നിന്ന് S അകലത്തിൽ എനിക്ക് ലോഡുചെയ്യുന്നു അതിനാൽ വ്യക്തമായും ക്രാക്ക് ടിപ്പ് എ ഉയർന്ന സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ നൽകും ക്രാക്ക് ടിപ്പ് ബി ക്ക് കുറഞ്ഞ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ അനുഭവപ്പെടും വാസ്തവത്തിൽ ഈ സ്ട്രെസ് ഫംഗ്ഷൻ പോലും വെസ്റ്റർഗാർഡ് തന്റെ യഥാർത്ഥ പേപ്പറിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് പി എന്ന സ്ട്രെസ് ഫംഗ്ഷൻ ഉണ്ട്P ഡിവൈഡഡ് ബൈ പൈ ഇന്റു z മൈനസ് s ഇന്റു a സ്ക്വയേർഡ് മൈനസ് s സ്ക്വയേർഡ് ഡിവൈഡഡ് ബൈ y z സ്ക്വയേർഡ് മൈനസ് a സ്ക്വയേർഡ് ഹോൾ പവർ ഹാഫ് സ്ട്രെസ് ഫംഗ്ഷൻ നൽകികഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരു കുട്ടികളിയാണ് ഉറവിടം ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റുക തുടർന്ന് SIF ന്റെ നിർവചനം പ്രയോഗിക്കുക ആവശ്യമെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ ചെയ്ത് ലിമിറ്റ് നേടുക അവസാനം സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനായി എക്സ്പ്രഷൻ നേടുക വാസ്തവത്തിൽ ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല അവസാന എക്സ്പ്രഷൻസ് മാത്രം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു ടിപ്പ് എയിലെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനും ടിപ്പ് ബിയിലെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനും നിങ്ങൾക്ക് വ്യത്യസ്ത എക്സ്പ്രഷനുകൾ ഉണ്ടെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട് ടിപ്പ് എ യ്ക്ക് ഇത് P ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പൈ ഇന്റു aപ്ലസ് s ഡിവൈഡഡ് ബൈ a മൈനസ് s ഹോൾ പവർ ഹാഫ് ടിപ്പ് ബി യ്ക്ക് K I Bഎന്ന് നൽകിയിരിക്കുന്നു P ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പൈ a ഇന്റു aമൈനസ് s ഡിവൈഡഡ് ബൈ a പ്ലസ് s ഹോൾ പവർ ഹാഫ് ഈ ഫലം പരിശോധിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ ഉണ്ട് നിങ്ങൾ S പൂജ്യത്തിന് തുല്യമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ രണ്ട് എക്സ്പ്രഷൻസും സെന്ററിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ ആയി മാറുന്നു അതിനാൽ ഇത് ക്രാക്ക് പ്രശ്നം യുക്തിസഹമായി മനസ്സിലാക്കുന്നുവെന്ന് കാണിക്കുന്നു വ്യത്യസ്ത തരം ലോഡിംഗുകളുടെ ഉചിതമായ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കണ്ടെത്താനും നമുക്ക് കഴിയും സിമെട്രിക് ട്രയാങ്കുലർ ഷേപ്പ് ലോഡിംഗ് ചെയ്ത ക്രാക്ക് ഫേസ് ഈ സമീപനങ്ങളുടെ വികസനം നോക്കിയാൽ നിങ്ങൾക്കറിയാം അവർ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ നേടികഴിഞ്ഞാൽ അവർ അത് കുറ്റമറ്റതാക്കാൻ തുടരുകയും ചില പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇത് പലതരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കാം അടുത്തതായി ഒരു പ്രത്യേക തരം ലോഡിംഗ് ഉപയോഗിച്ച് ലോഡ് ചെയ്ത ഒരു ക്രാക്കിന്റെ പ്രശ്നം നമ്മൾ ഏറ്റെടുക്കും എനിക്ക് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ലോഡിംഗ് ചെയ്ത ഒരു ക്രാക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും ലോഡിംഗ് സിമെട്രിക് ആണ് അതെല്ലാം നിങ്ങൾ നിരീക്ഷിക്കണം ഇതിന്റെ പരമാവധി മൂല്യം p നോട്ട് ആണ് അതാണ് പ്രെഷർ നിങ്ങൾക്ക് ആക്സിസ് ലേബൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ ചർച്ചയ്ക്ക് ഇത് ആവശ്യമുള്ളതിനാൽ ദയവായി ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക ലേബൽ ചെയ്തതുപോലെ എനിക്ക് s ദൂരമുണ്ട് നിങ്ങൾ ഫോഴ്സ് കണ്ടെത്തണം അതിനാൽ വർദ്ധിച്ചുവരുന്ന ദൂരത്തിൽ ds ൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ട്രയാങ്കുലർ ഷേപ്പ് ലോഡിംഗിൽ നിന്ന് നിങ്ങൾക്ക് സെന്ററിലെ p നോട്ട് അറിയാമെങ്കിൽ ഏത് അകലത്തിലുമുള്ള പ്രെഷറിന്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്കറിയാമോ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ലഭിക്കുന്നതിനുള്ള ആരംഭ പോയിന്റ് ഏതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ക്രാക്കിന്റെ മധ്യഭാഗത്ത് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു തുടർന്ന് ക്രാക്കിന്റെ ഫേസിൽ രണ്ട് സിമെട്രിക് ലോഡുകൾ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു തുടർന്ന് നമ്മൾ ഒരു അസിമെട്രിക് ലോഡ് കണ്ടു നിങ്ങൾ ഇവിടെ ലോഡിംഗ് നോക്കുകയാണെങ്കിൽ ലോഡിംഗ് സിമെട്രിക് ആണ് അതിനാൽ നിങ്ങൾക്ക് ലഭിച്ച സൊല്യൂഷനിൽ ക്രാക്ക് ഫേസിൽ സിമെട്രിക് ലോഡിംഗ് കേസിലെ സൊല്യൂഷൻ ഇവിടെ ഉപയോഗിക്കുന്നത് വിവേകപൂർവ്വം ആയിരിക്കും അവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ഭാരം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഒരു ഡിസ്ട്രിബ്യുട്ടേഡ് ലോഡാണ് ഇത് വളരെ ലളിതമായ ഒരു വ്യായാമമാണ് നിങ്ങൾ എക്സ്പ്രഷനുകൾ വീണ്ടും ഉൾപ്പെടുത്തണം ഈ ഡയഗ്രം അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ എഴുതാൻ കഴിയും മൊത്തത്തിലുള്ള പ്രശ്നം നൽകിയിരിക്കുന്നു ഇതിൽ എനിക്ക് എ എന്ന ക്രാക്കിന്റെ ദൂരമുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് dP ഈക്വൽ റ്റു a മൈനസ് s ഡിവൈഡഡ് ബൈ aഇന്റു p നോട്ട് എന്ന് എഴുതാനും കഴിയും ഏതെങ്കിലും ഘട്ടത്തിലെ എ മൈനസ് s ദൂരത്തിലെ പ്രെഷർ ആണിത് സിമെട്രിക് ലോഡിനായി നമുക്ക് ഉണ്ടായിരുന്ന എക്സ്പ്രഷൻ നോക്കിയാൽ എനിക്ക് ഇത് എഴുതാം നമ്മൾ dK I എഴുതുകയാണ് എനിക്ക് ഈ ലോഡ് 2 ഇന്റു എ മൈനസ് s ഡിവൈഡഡ് ബൈ എ ഇന്റു പൈ p നോട്ട് സ്ക്വയർ റൂട്ട് പൈ എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് s സ്ക്വയർ ds നിങ്ങളുടെ പേജുകൾ തിരികെ മറിച്ച് നോക്കി സിമെട്രിക് ലോഡിംഗിനായി KI യുടെ എക്സ്പ്രഷൻ നമ്മൾ എന്താണ് എഴുതിയതെന്ന് കാണുക ഞാൻ അതേ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നു ഡിപിയുടെ ടെംസിൽ ആണ് ഞാൻ ഇത് മാറ്റിസ്ഥാപിക്കുന്നത് നമ്മൾ പറയുന്നു നമുക്ക് എന്ത് മൂല്യം ലഭിച്ചാലും അത് dK I ആയി ലഭിക്കുന്നു ഫ്രാക്ചർ മെക്കാനിക്സിൽ ഒരു കോഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ഗണിതശാസ്ത്രമെല്ലാം നിങ്ങൾ ചെയ്യണം ഇവയ്ക്കെല്ലാം നിങ്ങൾക്കറിയാം നിങ്ങൾ ഇന്റഗ്രലുകളുടെ പട്ടിക ഓർമ്മിക്കേണ്ടതുണ്ട് എനിക്ക് dK I നുള്ള എക്സ്പ്രഷൻസ് ഉണ്ട് ഞാൻ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ ക്രാക്ക് ലെങ്ങ്തിൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം ഞാൻ അത് ചെയ്യാം 0 റ്റു a 2 ഇന്റു a മൈനസ് s ഡിവൈഡഡ് ബൈ a പൈ p നോട്ട് റൂട്ട് ഓഫ് പൈ a ഡിവൈഡഡ് ബൈ a sസ്ക്വയർ മൈനസ് s സ്ക്വയർ ഇന്റു ds ലളിതമാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാമോ നമുക്ക് വിലയിരുത്തേണ്ട ഇന്റഗ്രൽ ഘടകമെങ്കിലും നേടുക ഇന്റഗ്രലുകളുടെ പട്ടികയിൽ നിന്നുള്ള എക്സ്പ്രഷൻസ് നിങ്ങൾ ഓർത്തിരിക്കില്ല അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം ഇത് വളരെ രസകരമായ ഒരു പ്രശ്നമാണ് ഞാൻ എടുത്ത പ്രശ്നം വളരെ രസകരമാണ് ഞാനത് ഒരു ഉദ്ദേശ്യത്തോടെയാണ് എടുത്തത് ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കുലർ ലോഡിംഗിൽ വ്യത്യാസമുണ്ട് പ്രെഷർ പി നോട്ട് ക്രാക്കിന്റെ മുഴുവൻ നീളത്തിലും സ്ഥിരമായി നിലനിൽക്കുന്ന മറ്റൊരു രസകരമായ സാഹചര്യവും എനിക്കുണ്ടാകും ഈ സാഹചര്യത്തിൽ നിന്ന് പോലും എനിക്ക് K I ന് സൊല്യൂഷൻ കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു KI നായി ഈ എക്സ്പ്രഷൻ ഉള്ളപ്പോൾ അത് ലളിതമാക്കുക തുടർന്ന് നിങ്ങൾ വിലയിരുത്തേണ്ട ഇന്റഗ്രൽ എന്താണെന്ന് കാണുക ആ ഇന്റഗ്രലിന്റെ മൂല്യം എനിക്കറിയാമെങ്കിൽ മാത്രം K I ന്റെ മൂല്യം എന്താണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും അതിനാൽ നിങ്ങൾ അതിനെ ഒരു വ്യായാമമായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു വ്യായാമം എനിക്ക് പ്രേഷറിന്റെ ട്രയാങ്കുലർവ്യതിയാനം ഇല്ല പക്ഷേ എനിക്ക് കോൺസ്റ്റന്റ് പ്രെഷർ ഉണ്ട് അതും ഒരു പ്രധാന പ്രശ്നം ആണ് നോക്കൂ നിങ്ങൾ നോക്കിയെങ്കിൽ ക്രാക്ക് ഫേസിന്റെ സ്ഥാനചലനത്തെ അടിസ്ഥാനമാക്കി എനർജി റിലീസ് റേറ്റ് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിച്ചപ്പോൾ സിഗ്മയ്ക്ക് തുല്യമായ ഒരു സമ്മർദ്ദത്തിലൂടെയാണ് ക്രാക്ക് തുറക്കുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു കെ യുടെ മൂല്യത്തിനായി നമ്മൾ ചില എക്സ്പ്രഷൻസ് പറഞ്ഞു കെ യുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് കാണാം രണ്ട് എക്സ്പ്രഷൻസും പ്രധാനമാണ് നിങ്ങൾ കണ്ടെത്തുന്നതെന്തെന്നാൽ ഈ ഓരോ സാഹചര്യത്തിലും ഇന്റഗ്രൽ വ്യത്യസ്തമായിരിക്കും പുസ്തകങ്ങളിൽ കാണുക അവർ ഇത് നൽകും ഒടുവിൽ കെ എന്നതിന് എക്സ്പ്രഷൻ നൽകും നിങ്ങൾക്കറിയാമോ നിങ്ങൾ അങ്ങനെ വായിച്ചാൽ ആശയങ്ങൾ സ്വാംശീകരിക്കുകയില്ല കാരണം നിങ്ങൾക്കറിയാവുന്ന ഒരേയൊരു കാര്യം നിങ്ങൾക്ക് പരിശീലനം ലഭിച്ച നിങ്ങൾ മറന്നുപോയ ഗണിതശാസ്ത്രത്തിൽ എന്തെങ്കിലും ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിൽ അത്രയേയുള്ളൂ സ്ട്രെസ് ഫംഗ്ഷൻ നിങ്ങൾ എഴുതില്ല ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നം നൽകിയാൽഅല്ലെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ ഇതിന്റെ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ വികസിപ്പിക്കുക എന്നോ മറ്റോ ഇത് ഒരു കഠിനമായ ജോലിയാണ് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ചരിത്രവും വികാസവും പരിശോധിച്ചാൽ ആളുകൾ സ്ട്രെസ് ഫംഗ്ഷനിൽ എത്തിച്ചേരാൻ പാടുപെട്ടു സെന്റർ ക്രാക്കിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രശ്നത്തിന് പോലും നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ക്യാപിറ്റൽ Y കൂടി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു സാൻഫോർഡ് വന്ന് രക്ഷപ്പെടുത്തി അപ്പോൾ മാത്രമേ പ്രശ്നം പൂർത്തിയാകൂ ഇതിന് ധാരാളം വർഷങ്ങളെടുത്തു അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു വ്യായാമം സ്റെപ്സ് ഒഴിവാക്കാതെ ഗണിതശാസ്ത്രം ചെയ്യുക എന്നതാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലവുമായി ഒരുതരം അറ്റാച്ചുമെന്റ് നൽകും അതിലും കൂടുതൽ അന്തിമ എക്സ്പ്രഷൻ നോക്കുമ്പോൾ അത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് എക്സ്പ്രഷൻസ് ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ആദ്യത്തെ കേസ് എനിക്ക് ട്രയാങ്കുലർ ലോഡിംഗ് ഉള്ളപ്പോൾ നിങ്ങൾ ഈ ഇന്റഗ്രൽ നോക്കുക ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എസ് ഇന്റു ds നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇന്റഗ്രലുകളുടെ പട്ടികയിൽ നിന്ന് ലഭിക്കും ഇതുപോലുള്ള ഒരു എക്സ്പ്രഷൻ ആദ്യ പദം സ്ക്വയർ റൂട്ട് ഓഫ് എ പ്ലസ് എസ് ഇന്റു എ മൈനസ് എസ് ലിമിറ്റ് 0 റ്റു a രണ്ടാമത്തെ പദം പ്ലസ് ടു എ സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് എ മൈനസ് എസ് ഡിവൈഡഡ് ബൈ 2a ലിമിറ്റ് 0 റ്റു a നിങ്ങൾ ലിമിറ്റ് മാറ്റി ചെയ്യുമ്പോൾ ഇത് a ഇന്റു പൈ ബൈ 2 മൈനസ് 1 എന്ന ഒരു എക്സ്പ്രഷൻ ലഭിക്കും നിങ്ങൾക്കറിയാമോ ഇത് വീണ്ടും സബ്സ്റ്റിട്യൂട്ട് ചെയ്തു കെ യുടെ എക്സ്പ്രഷൻ നേടുകയും ചെയ്യേണ്ടിവരും ഞാൻ അത് നൽകില്ല പിന്നീട് നോക്കാം പ്രെഷർ സ്ഥിരമായിരിക്കുമ്പോൾ നിങ്ങൾ വിലയിരുത്തേണ്ട ഇന്റഗ്രൽ എന്തായിരിക്കും എക്സ്പ്രഷൻ വ്യത്യസ്തമാണ് എക്സ്പ്രഷൻ ഇന്റഗ്രൽ 0 റ്റു a 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഇന്റു ds ആയി മാറുന്നുഇന്റഗ്രലുകളുടെ പട്ടികയിൽ നിന്ന്ഇത് സൈൻ ഇൻവേഴ്സ് s ബൈ എലിമിറ്റ് 0 റ്റു a നിങ്ങൾക്ക് ഇത് ഉണ്ട് നിങ്ങൾ മാറ്റിസ്ഥാപിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്രഷൻ പൈ ബൈ 2 ആയി ലഭിക്കും ഇന്റഗ്രൽ മൂല്യത്തിൽ നിന്നും ലഭിക്കുന്ന എക്സ്പ്രഷൻസ്ഇവിടെ നിങ്ങൾ നോക്കുകയാണ് ഇവ കെ യുടെ അന്തിമ എക്സ്പ്രഷൻസ് അല്ല കെ യുടെ അന്തിമ എക്സ്പ്രഷൻ നമുക്ക് പരിശോധിക്കാം ഒരു ട്രയാങ്കുലർ ഫാഷനായി നിങ്ങൾക്ക് പ്രെഷർ ലോഡിംഗ് വ്യത്യാസപ്പെടുമ്പോൾ കെ ഈക്വൽ റ്റു 1 മൈനസ് 2 ബൈ പൈ p നോട്ട് ഇന്റു സ്ക്വയർ റൂട്ട് ഓഫ് പൈ a ആണ് മറുവശത്ത് പ്രെഷർ സ്ഥിരമാകുമ്പോൾ നിങ്ങൾക്ക് പോയി ലളിതമാക്കാം ഫലം p നോട്ട് റൂട്ട് പൈ a ആയി കുറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷൻ ആണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ കാരണം പല എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനുകളിലും പ്രെഷർ ലോഡിംഗ് വളരെ സാധാരണമാണ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനുള്ള എക്സ്പ്രഷൻ എന്തുതന്നെയായാലും യൂണി ആക്സിയൽ ലോഡിംഗിനോ ബൈ ആക്സിയൽ ലോഡിംഗിനോ വിധേയമായ ഒരു സെന്റർ ക്രാക്കിനായി നിങ്ങൾ ഇവിടെ എന്താണ് കാണുന്നത് കാരണം തിരശ്ചീന ദിശയിലുള്ള സ്ട്രെസ് കെ യുടെ മൂല്യത്തിന് സംഭാവന നൽകുന്നില്ലെന്ന് നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ട് കെ യെ ഇപ്പോഴും ബാധിച്ചിട്ടില്ല അവിടെ നിങ്ങൾക്ക് അത് സിഗ്മ റൂട്ട് പൈ എ ആയി ലഭിച്ചു സമ്മർദ്ദത്താൽ ക്രാക്ക് ഫേസ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് സമാനമായ ഒരു എക്സ്പ്രഷൻസ് ഉണ്ട് നോക്കൂ ഇവിടെ നമ്മൾ ഒരു മാത്തമറ്റിക്കൽ സമീപനം നോക്കി തുടർന്ന് ഡിസ്ട്രിബ്യുട്ടേഡ് ലോഡിംഗിനും അതുപോലെ കോൺസ്റ്റന്റ് പ്രെഷറിനും എക്സ്പ്രഷൻ ലഭിച്ചു പിന്നീട് ഞാൻ സൂപ്പർപോസിഷൻ രീതി ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കും അവിടെ നിങ്ങൾക്ക് വീണ്ടും അതേ ഉത്തരം ലഭിക്കും സൂപ്പർപോസിഷൻ രീതിയെ നിങ്ങൾ വിലമതിക്കുന്നതിന് ഈ ഉത്തരം നിങ്ങൾക്ക് ഒരുതരം ആത്മവിശ്വാസം നൽകും നിങ്ങൾ ഇതിനകം ഫലം കണ്ടതിനാൽ p നോട്ട് റൂട്ട് പൈ a സൂപ്പർപോസിഷൻ രീതി ഉപയോഗിച്ച് ഞാൻ അതേ ഫലം നേടാൻ പോകുന്നു അതിനാൽ ഈ ഫലത്തിൽ നിന്ന് നിങ്ങൾ സൂപ്പർപോസിഷൻ രീതി പഠിക്കും തുടർന്ന് മറ്റ് ക്ലാസ് പ്രശ്നങ്ങൾക്ക് സൂപ്പർപോസിഷൻ രീതി പ്രയോഗിക്കുകയോ വിപുലീകരിക്കുകയോ ചെയ്യുക അനന്തമായ സ്ട്രിപ്പിൽ തുല്യ അകലത്തിലുള്ള കോലീനിയർ ക്രാക്കുകൾകുള്ള SIF ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാം സ്ട്രെസ് ഫംഗ്ഷനുകൾ വികസിപ്പിക്കുമ്പോൾ ആ സ്ട്രെസ് ഫംഗ്ഷനുകളുടെ ഡവലപ്പർമാരും ചിന്തിച്ചത് ഉചിതമായ എന്ത് പരിഷ്കാരങ്ങളിലൂടെ അവർക്ക് ആ യൂട്ടിലിറ്റി വിപുലീകരിക്കാനും കൂടുതൽ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയും എന്നാണ് ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു 1939 ൽ വെസ്റ്റർഗാർഡ് തന്റെ യഥാർത്ഥ പേപ്പറിൽ ഈ സ്ട്രെസ് ഫങ്ഷൻ റിപ്പോർട്ട് ചെയ്തു ഇത് അനന്തമായ സ്ട്രിപ്പിലെ തുല്യ അകലത്തിലുള്ള കോലീനിയർ ക്രാക്കുകൾക്ക് വേണ്ടിയുള്ളതാണ് ആദ്യമായി കാണുക നിങ്ങൾക്ക് എന്ത് ലഭിക്കും ഏത് ക്ലാസ് പ്രശ്നത്തിലാണ് നമുക്ക് തുല്യ അകലത്തിലുള്ള ക്രാക്കുകൾ ലഭിക്കാൻ പോകുന്നത് ഡവലപ്പർമാർ നോക്കുന്ന രീതി അതല്ല അവർക്ക് ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ഉണ്ട് ഇത് ചെറുതായി തിരുത്തി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് കഴിയും ഈ സൊല്യൂഷനെ പിൽക്കാല അന്വേഷകർ എങ്ങനെ വീക്ഷിച്ചു എന്നതാണ് നമ്മൾ നോക്കേണ്ടത് അതിൽ നിന്ന് അവർ വേർതിരിച്ചെടുത്തത് എന്താണ് ആ വീക്ഷണകോണിൽ നിന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നിങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നം നോക്കുകയാണെങ്കിൽ അത് അക്കാദമിക് താൽപ്പര്യമുള്ളതാണ് ഇതിനായി തുല്യമായ സ്ട്രെസ് ഫംഗ്ഷൻ ZI ആയി നിങ്ങൾക്ക് സിഗ്മ സൈൻ പൈ z ഡിവൈഡഡ് ബൈ w ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ സ്ക്വയേർഡ് പൈ z ബൈ w മൈനസ് സൈൻ സ്ക്വയർ പൈ എ ഡിവൈഡഡ് ബൈ w നിങ്ങൾ ഇപ്പോൾ വേണ്ടത്ര പരിശീലനം നേടിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഫംഗ്ഷൻ ഉള്ള നിമിഷം സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനായുള്ള എക്സ്പ്രഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും വാസ്തവത്തിൽ വെസ്റ്റർഗാർഡിന് അത് അറിയില്ലായിരുന്നു അദ്ദേഹം സ്ട്രെസ് ഫംഗ്ഷൻ നൽകി 1939 ൽ അദ്ദേഹം സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ വിലയിരുത്തിയില്ല കാരണം അക്കാലത്ത് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ആശയം ലഭ്യമല്ലായിരുന്നു ഇർവിൻ മാത്രമാണ് ഇത് അവതരിപ്പിച്ചത് അതിനാൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറിനുള്ള എക്സ്പ്രഷന്റെ ക്രെഡിറ്റ് ഇർവിന് ആണ് 1957 ൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം ഇതെല്ലാം ഔപചാരികമായി പറഞ്ഞു തുല്യ അകലത്തിലുള്ള കോലീനിയർ ക്രാക്കുകളുടെ ഈ പ്രശ്നത്തിന് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറിനുള്ള എക്സ്പ്രഷൻ സിഗ്മ റൂട്ട് പൈ a ആയി മാറുന്നു ഇത് മാന്ത്രികമാണ് ഇത് ഇപ്പോഴും അവശേഷിക്കുന്നു ഇത് മറ്റൊരു ഘടകത്താൽ ഗുണിച്ചാൽ w ബൈ പൈ ഇന്റു ടാൻ പൈ എ ഡിവൈഡഡ് ബൈ w ഹോൾ പവർ ഹാഫ് എന്താണ് w w എന്നത് ക്രാക്കുകൾക്കിടയിലുള്ള വിടവാണ് ഇത് W ആണ് ഒപ്പം ക്രാക്കിന്റെ നീളം 2a ആണ് എനിക്ക് ക്രാക്ക് സെന്ററിൽ ഉറവിടം ഉറപ്പിച്ചു നിങ്ങൾക്ക് ഈ ദിശയിലേക്കും ഈ ദിശയിലേക്കും വ്യാപിക്കുന്ന ക്രാക്കുകൾ ഉണ്ട് കെ എന്ന എക്സ്പ്രഷൻ ഇർവിൻ വെസ്റ്റർഗാർഡ് കൊയിറ്റർr എന്നിവരാണ് കണ്ടെത്തിയത് കാരണം ഏത് പ്രശ്നത്തിനും സ്ട്രെസ് ഫംഗ്ഷൻ പ്രധാനം ആണ് വെസ്റ്റർഗാർഡ് ഇത് റിപ്പോർട്ട് ചെയ്തു സ്ട്രെസ് ഫംഗ്ഷനിൽ നിന്ന് കെ എന്നതിന്റെ ഒരു എക്സ്പ്രഷൻസ് ഇർവിൻ എക്സ്ട്രാക്റ്റുചെയ്തു ഇതിനെ ടാൻജെന്റ് ഫോർമുല എന്ന് വിളിക്കുന്നു ഇത് ടാൻ പൈ എ ബൈ w ടെം ആണ് ഇത് ഒരു ടാൻജെന്റ് ഫോർമുല എന്നറിയപ്പെടുന്നു ഈ എക്സ്പ്രഷൻ ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് അതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ മുതൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ കാണും അതിൽ ക്രാക്ക് നീളവും പ്രശ്നത്തിന്റെ ജ്യാമിതീയ പാരാമീറ്ററും അതിൽ ഉൾപ്പെടുന്നു നിങ്ങൾ ഇത് എ ബൈ w റേഷ്യോ ആയി വായിക്കണം ഭാവിയിലെ എല്ലാ ചർച്ചകൾക്കുംഎ ബൈ w അല്ലെങ്കിൽ 2 എ ബൈ w ന്റെ മൂല്യം എന്താണ് എന്ന് നോക്കാം ഈ സ്വഭാവമുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ച് എന്താണ് പ്രധാനം ഇപ്പോൾ ക്രാക്കുകൾക്കിടയിലുള്ള ഒരു ലൈൻ എബി സിഡി എന്നിവ എടുക്കുക എബി സിഡി ലൈനുകൾക്ക് എന്ത് സംഭവിക്കും എബി സിഡി അരികുകൾ സിമെട്രിക് ആണ്അതു കാരണം ഷിയർ സ്ട്രെസ് നിലനിൽക്കില്ല നോക്കൂ ഈ കേസുകൾക്കെല്ലാം നിങ്ങൾ സ്കെച്ചുകൾ നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് സ്കെച്ച് വരയ്ക്കാനും കഴിയുംആശയവും ചർച്ചയും സ്വാംശീകരിക്കാനും കഴിയും നിങ്ങൾക്ക് കോളിനിയർ ക്രാക്കുകൾ തുല്യ അകലത്തിലുണ്ട് കൂടാതെ രണ്ട് ക്രാക്കുകൾക്കിടയിലുള്ള ലൈൻ എബി സിഡി എന്നിവ ഞാൻ എടുക്കുന്നു സിമെട്രിക് വാദങ്ങളിൽ നിന്ന്മനസിലാക്കാം അവ നേരെ തന്നെ നിൽക്കണം നിങ്ങൾക്ക് ഷിയർ സ്ട്രെസ് ഉണ്ടെങ്കിൽ അവർക്ക് നേരെ തന്നെ നിൽക്കാൻ കഴിയില്ല അതിനാൽ ഷിയർ പൂജ്യമായിരിക്കണം വരികൾ നേരെയായി തുടരുന്നതിന് തിരശ്ചീന ദിശയിൽ നിങ്ങൾ സ്ട്രെസ് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് അതിൽ നിന്ന് എന്താണ് ലഭിക്കുക തുല്യ അകലത്തിലുള്ള കൊളീനിയർ ക്രാക്കുകളിൽ നിന്ന് ഒരു ഫൈനൈറ്റ് സ്ട്രിപ്പ് നീക്കംചെയ്യാൻ എനിക്ക് കഴിയും അതിനാൽ വാസ്തവത്തിൽ തുല്യ അകലത്തിലുള്ള കോലീനിയർ ക്രാക്കുകളുടെ അടിസ്ഥാന സൊല്യൂഷൻ എല്ലാ സൊല്യൂഷനുകളുടെയും മാതാവാണ് ഇപ്പോൾ എനിക്ക് എന്താണ് പ്രശ്നം എനിക്ക് ഒരു സെന്ററിൽ ദ്വാരമുള്ള ഒരു പ്ലേറ്റ് ഉണ്ട് കെ യുടെ മൂല്യത്തെ x ദിശയിലുള്ള സ്ട്രെസ് ബാധിക്കുന്നില്ലെന്നു നമ്മൾ ഇതിനകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ എടുക്കണം ഇത് ഒരു സ്കീമാറ്റിക് ആണ് വാസ്തവത്തിൽ കൃത്യമായ പ്ലോട്ടുകൾ ഇർവിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നേടിയിട്ടുണ്ട് a ബൈ w അനുപാതത്തിന്റെ വിവിധ മൂല്യങ്ങൾക്കായി അവർ ഈ പ്ലോട്ട് നേടി a ബൈ w അനുപാതം ചെറുതായിരിക്കുമ്പോൾ സിഗ്മ x സ്മൂത്ത് ആണ് എ ബൈ w വളരെ വലുതാകുമ്പോൾ മാത്രം ക്രാക്ക് ആക്സിസിൽ സിഗ്മ x മൂല്യങ്ങൾ വളരെ ഉയർന്നതാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ ഇവിടെയുള്ള വാദം a ബൈ w അനുപാതം ചെറുതായിരിക്കുന്നിടത്തോളം തുല്യ അകലത്തിലുള്ള കൊളീനിയർ ക്രാക്കുകൾക്കുള്ള സൊല്യൂഷന്റെ ഗുണം ഒരു ഫൈനൈറ്റ് സ്ട്രിപ്പിനുള്ള കെ യുടെ മൂല്യമായി കണക്കാക്കാം എല്ലാ പ്രായോഗിക സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഫൈനൈറ്റ് ബോഡി പ്രോബ്ലെംസ് മാത്രമേയുള്ളൂ ഇത്തരത്തിലുള്ള വാദമാണ് അവർ മുന്നോട്ടുവച്ചത് നമ്മൾ ഇത് കൂടുതൽ കാണും അതിനാൽ ഒരു തുല്യ അകലത്തിലുള്ള കോളിനിയർ ക്രാക്കുകളുള്ള അനന്തമായ പ്ലേറ്റിന്റെ പ്രശ്നം നോക്കുന്നതിൽ നിന്ന് നമുക്ക് ചർച്ചചെയ്യാൻ കഴിയും ഫൈനൈറ്റ് ആയ അളവുകളുടെ ഒരു പ്ലേറ്റിലെ ക്രാക്കിന്റെ SIF എന്താണെന്ന് ഇപ്പോൾ ഇത് ഫൈനൈറ്റ് ആണ്എഡ്ജ് നേരെയാണ് എനിക്ക് ഒരു സെന്റർ ക്രാക്ക് ഉണ്ട് ഞാൻ ഒരു ലോഡ് സിഗ്മ പ്രയോഗിച്ചു ഓർക്കുക ഇതുപോലുള്ള ഒരു പ്രശ്നത്തെ സിസിടി സ്പെസിമെൻ സെന്റർ ക്രാക്കഡ് ടെൻഷൻ സ്പെസിമെൻ എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു നമ്മൾ ഡിസിബി മാതൃക ഡബിൾ കാന്റിലിവർ ബീം മാതൃക ആർഡിസിബി മാതൃക എന്നിവ കണ്ടതുപോലെ തന്നെ ഇതും ചുരുക്കപ്പേരാണ് ഇപ്പോൾ നിങ്ങൾക്ക് സിസിടി മാതൃകയുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് സിംഗിൾ എഡ്ജ് നോച്ച് സ്പെസിമെൻ എസ്ഇഎൻ Single Edge Notch specimen SEN സ്പെസിമെൻ ഉണ്ട് ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ വായിക്കുന്നു അക്കാലത്ത് ഇർവിൻ വികസിപ്പിച്ചപ്പോൾഫ്രാക്ച്ചർ ടഫ്നെസ്സ് കണ്ടെത്തുന്നതിന് അവർ ഉപയോഗിച്ച മാതൃകയാണിത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം ഇത് മെറ്റീരിയൽ ടെസ്റ്റിംഗ് ചെയ്യാൻ ഉപയോഗിച്ചു കെ യുടെ മൂല്യം കണ്ടെത്തുന്നതിന് അനാലിറ്റിക്കൽ ആയ യുക്തിസഹമായ എക്സ്പ്രഷൻസ് അവർക്ക് ആവശ്യമായിരുന്നു നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എനിക്ക് ദൈർഘ്യമേറിയതും നീളമേറിയതുമായ ക്രാക്കുകൾ ഉണ്ടാകുമ്പോൾ അരികുകൾ സ്ട്രെസ് ഫീൽഡിൽ കാര്യമായ സ്വാധീനം ചെലുത്തും അതിനാൽ സൊല്യൂഷൻ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ തുടക്കത്തിൽ തന്നെ സൊല്യൂഷനെ നോക്കിയത് ഇങ്ങനെയാണ് അതിനാൽ a ബൈ w അനുപാതം ചെറുതാണെങ്കിൽ തുല്യ അകലത്തിലുള്ള കൊളീനിയർ ക്രാക്കുകൾക്കുള്ള ഫലം ഒരു ഫൈനൈറ്റ് സ്ട്രിപ്പിനുള്ള KI ന്റെ മൂല്യമായി കണക്കാക്കാം നമ്മൾ പരിഷ്ക്കരണം നടത്തും നമ്മൾ ഇവിടെ നിർത്തില്ല ആവശ്യമായ പരിഷ്ക്കരണം നമ്മൾ ചെയ്യും ഞാൻ വീണ്ടും ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു ക്രാക്ക് ഫേസ്സിന് സമാന്തരമായി വരുന്ന സ്ട്രെസ് ഘടകങ്ങളുടെ സ്വാധീനം KI ൽ അവഗണിക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള ഏകദേശ ധാരണയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമോ ആളുകൾക്ക് കണക്കുകൂട്ടലിനായി സ്ലൈഡ് റൂൾ മാത്രമുള്ള ഒരു സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത് കണക്കുകൂട്ടൽ നടത്താൻ അവർക്ക് കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു 1966 ൽ ഐസിഡ ഈ പ്രശ്നം ന്യുമേറിക്കൽ ആയി പരിഹരിച്ചു അദ്ദേഹം 36 ടെം ഉള്ള ഒരു സൊല്യൂഷനിലെത്തി ഇത് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ബ്രൌൺ സ്ട്രോളി എന്നിവർ പിന്നീട് ആ എക്സ്പ്രഷൻ ലളിതമാക്കുകയും ഏകദേശ സൊല്യൂഷനിൽ എത്തിച്ചേരുകയും ചെയ്തു പിൽകാലത്തു മറ്റു പല വികാസങ്ങളും ഉണ്ടായിരുന്നു അത്തരം സൊല്യൂഷനിൽ ചിലത് നമ്മൾ കാണും നിങ്ങൾ തിരിച്ചറിയേണ്ടത് ചെറുതായ a ബൈ wക്ക് ഇത് ന്യായമായ നല്ല ഏകദേശ ഫലമാണ് നിങ്ങൾക്കറിയാമോ ഇൻഫിനിറ്റ് ബോഡി പ്രോബ്ലെത്തിൽ നിന്ന് നമ്മൾ ഫൈനൈറ്റ് ബോഡി പ്രോബ്ലെത്തിൽ എത്തണം നിങ്ങൾ എങ്ങനെ അവിടെ പോകും ആളുകൾ ബുദ്ധിപൂർവ്വം ഈ വാദം ഉന്നയിക്കുകയും പിന്നീട് ഇതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് പ്രായോഗിക വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ തുല്യ അകലത്തിലുള്ള കോലീനിയർ ക്രാക്കുകൾ പ്രധാനമായിരിക്കില്ല എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സെന്റർ ക്രാക്കിനുള്ള സൊല്യൂഷനിൽ എത്തിച്ചേരാം നമ്മൾ കാണും നിങ്ങൾക്ക് ഇത് ഒരു എഡ്ജ് ക്രാക്കിനും ഡബിൾ എഡ്ജ്ഡ് ക്രാക്കിനും ലഭിക്കും അതാണ് ആരംഭ പോയിന്റ് ആ കാഴ്ചപ്പാടിൽ നിന്ന് അത് പ്രാധാന്യമർഹിക്കുന്നു അതിനാൽ പൊതുവായ സൊല്യൂഷനിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എഴുതാം സിഗ്മ റൂട്ട് പൈ aഇന്റു ഫങ്ഷൻ ഓഫ് ആൽഫ ആൽഫ ഈക്വൽ റ്റു 2a ബൈ w ഈ സാഹചര്യത്തിൽ എനിക്ക് ക്രാക്ക് ദൈർഘ്യം 2a ആയി ഉണ്ട് വീതി w ആണ് നിങ്ങൾക്ക് ഇസിഡയുടെ സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു ഫെഡെർസൻ ഫലങ്ങൾക്ക് അനുയോജ്യമായത് ചെയ്തു കെ എന്ന എക്സ്പ്രഷൻ അദ്ദേഹം സിഗ്മ റൂട്ട് പൈ എ ആയി നൽകിയിട്ടുണ്ട് അത് മാന്ത്രികമാണ് ഇത് ഇന്റു സീകന്റ് ഓഫ് പൈ എ ഡിവൈഡഡ് ബൈ w ഹോൾ പവർ ഹാഫ് ഇതിനെ സീക്കന്റ് ഫോർമുല എന്ന് വിളിക്കുന്നു ഇത് ഹ്യൂറിസ്റ്റിക് ആർഗ്യുമെന്റുകളിൽ നിന്ന് പൂർണ്ണമായും നേടിയതാണ് സാഹിത്യം പറയുന്നത് പിന്നീട് ആളുകൾ ഒരു സൈദ്ധാന്തികതയുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചുപക്ഷെ ശരിക്കും വിജയിച്ചില്ല എന്നിരുന്നാലും ഇത് വളരെ കൃത്യമാണ് 7 ൽ താഴെയുള്ള ആൽഫയുടെ മൂല്യത്തിന്റെ കൃത്യത പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 3 ശതമാനമാണെന്ന് കണ്ടെത്തി ആൽഫ 0 8 ആണെങ്കിൽ ഇത് ഒരു ശതമാനത്തിനുള്ളിൽ ആണ് നിങ്ങൾക്കറിയാമോ ഞാൻ നൽകുന്ന അവസാന എക്സ്പ്രഷൻസ് കൃത്യതയും എന്തുതന്നെയായാലും ഇവ മുറികാമി എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ളതാണ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഹാൻഡ് ബുക്കിൽ ഈ വിവരങ്ങൾ ഉണ്ട് മെച്ചപ്പെട്ട കൃത്യതയുള്ള ടാഡ നൽകിയ മറ്റൊരു എക്സ്പ്രഷനും നിങ്ങൾക്ക് ഉണ്ട് 1 മൈനസ് 0 025 ആൽഫ സ്ക്വയേർഡ് പ്ലസ് 0 06 ആൽഫ പവർ നാല് ഇന്റു റൂട്ട് ഓഫ് സീക്കന്റ് പൈ എ ഡിവൈഡഡ് ബൈ w ആയി ഫംഗ്ഷൻ നൽകിയിരിക്കുന്നു ആൽഫയുടെ എല്ലാ മൂല്യങ്ങൾക്കും കൃത്യത 0 2 ശതമാനത്തിനുള്ളിൽ ഉണ്ടെന്ന് ഇത് അവകാശപ്പെടുന്നു ഞാൻ ജാഗ്രത പാലിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവ അനാലിറ്റിക്കൽ സൊല്യൂഷനിൽ നിന്നുള്ളതല്ല നിങ്ങൾ അത് മനസ്സിലാക്കണം ആളുകൾ ബൌണ്ടറി കോലോക്കഷൻ അല്ലെങ്കിൽ ഫൈനൈറ്റ് എലമെന്റ് അനുസരിച്ച് ഒരു ന്യൂമെറിക്കൽ അനാലിസിസ് നടത്തി അവർക്ക് ലഭിച്ച ഫലങ്ങൾ എന്തുതന്നെയായാലും അവർക്ക് ഉചിതമായ എംപിരിക്കൽ റിലേഷൻ ഉണ്ടാക്കി ഇവ ടൈം ടെസ്റ്റ് ചെയ്തവയാണ് ആളുകൾ അവ ഉപയോഗപ്രദമാണെന്ന് കണ്ടെത്തി അതിനാൽ ഫൈനൈറ്റ് ആയ ജ്യാമിതിയുടെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കണ്ടെത്തുന്നതിന് നിങ്ങൾക്കത് എടുക്കാം ഈ എക്സ്പ്രഷൻസ് ഗ്രാഫിക്കൽ രൂപത്തിലും താരതമ്യം ചെയ്യുന്നു ഈ ഗ്രാഫിന്റെ ഒരു കുറിപ്പും ഉണ്ടാക്കുക എനിക്ക് x ആക്സിസ് 2a ബൈ w ആയി നൽകുന്നു ഇത് 0 0 2 0 4 0 8 എന്നിങ്ങനെ നൽകിയിരിക്കുന്നു ഞാൻ 1 0 വരെ പോകുന്നു Y ആക്സിസ് പ്ലോട്ട് ചെയ്യുന്നത് KI ഡിവൈഡഡ് ബൈ സിഗ്മ റൂട്ട് പൈ എനിക്ക് 1 1 5 2 2 5 തുടങ്ങിയവയുണ്ട് ഇർവിന്റെ എക്സ്പ്രഷനിൽ SIF ന്റെ വ്യതിയാനം പ്രവചിക്കുന്നത് ഇങ്ങനെയാണ് ഇർവിന്റെ ആവിഷ്കാരം അതിലെ ഏറ്റവും ലളിതവും പ്രാചീനവുമാണെന്നു ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് വളരെ നല്ല തുടക്കമായിരുന്നു വാസ്തവത്തിൽ സിസിടി പാനലുകളുടെ ഫ്രാക്ച്ചർ ടഫ്നെസ്സ് കണ്ടെത്തുന്നതിന് അവർ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഫ്രാക്ചർ ടെസ്റ്റിനായി നമ്മൾ സിസിടി മാതൃക ഉപയോഗിക്കുന്നില്ല നമ്മൾ മോഡിഫൈഡ് കോംപാക്റ്റ് ടെൻഷൻ മാതൃക ഉപയോഗിക്കുന്നു ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനെക്കുറിച്ചുള്ള അധ്യായം എടുക്കുമ്പോൾ നമ്മൾ അത് നോക്കും ഫെഡെർസൻ തന്ന എക്സ്പ്രഷൻ എങ്ങനെ പോകുന്നു ഹ്യൂറിസ്റ്റിക് ആർഗ്യുമെന്റുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ എക്സ്പ്രഷൻ ലഭിക്കുന്നതെങ്കിലും ഇത് ന്യായമായും കൃത്യമാണ് വാസ്തവത്തിൽ ടാൻജെന്റ് ഫോർമുലയേക്കാൾ ഇതിനു മുൻഗണന നൽകുന്നു സീക്കന്റ് ഫോർമുലയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിലും അത് തികച്ചും എംപിരിക്കൽ ആർഗ്യുമെന്റ് ആണ് ഏറ്റവും വലിയ കൃത്യമായ ഫിറ്റ് ടഡ നൽകിയതാണ് ടഡയും ഫെഡെർസണും Tada and Feddersen നൽകിയ ഗ്രാഫുകൾ തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ നിങ്ങൾ കാണൂ അതിനാൽ ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക നിങ്ങൾ ഇവിടെ എന്താണ് കണ്ടെത്തുന്നത് നിങ്ങൾ ഇർവിൻ നൽകിയ സൊല്യൂഷനെ താരതമ്യം ചെയ്താൽ നിങ്ങൾ റഫറൻസിനായി ടഡാ എടുക്കുകയാണെങ്കിൽ 0 4 വരെ ഇർവിൻ സൊല്യൂഷനും ടാഡ സൊല്യൂഷനും വളരെ അടുത്താണ് കൂടുതൽ വ്യതിചലനങ്ങൾ ഇല്ല നിങ്ങൾ ഫെഡെർസൻ Feddersen സൊല്യൂഷനിൽ നോക്കുകയാണെങ്കിൽ ഇത് 0 85 വരെയാണ് ഫെഡെർസന്റെ സൊല്യൂഷൻ ന്യായമായും കൃത്യമാണെന്നും കണക്കാക്കുന്നത് വളരെ ലളിതമാണെന്നും അവർ പറയുന്നു എനിക്ക് ടാഡയിലേക്ക് പോകേണ്ടിവന്നാൽ ഞാൻ സീരീസ് ഫംഗ്ഷനുകൾ വിലയിരുത്തേണ്ടതുണ്ട് അതേസമയം ഇത് വിലയിരുത്താൻ ലളിതമാണ് ഒരു സെന്റർ ക്രാക്ക്ഡ് മാതൃകയുടെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു അടുത്തതായി നമ്മൾ സിംഗിൾ എഡ്ജ് നോച്ച്ഡ് സ്പെസിമെനിലേക്ക് പോകും നിങ്ങൾ കാണുന്നതെന്താണ് ചെറിയ എഡ്ജ് ക്രാക്കുകൾക്കായി നിങ്ങൾ എന്താണ് കാണുന്നത് നിങ്ങൾക്ക് ഇതിൽ 1 12 എന്ന ഘടകം ഉണ്ട് ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ഫ്രാക്ചർ മെക്കാനിക്സ് എങ്ങനെ വികസിച്ചുവെന്ന് നിങ്ങൾ ചിന്തിക്കണം പരമ്പരാഗത രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത സ്ട്രക്ച്ചർ തകരാൻ തുടങ്ങി ക്രാക്കുകൾ കൂടുതൽ അപകടകരമാണെന്നും ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരേണ്ടതുണ്ടെന്നും അവർ കണ്ടെത്തി അക്കാലത്ത് ന്യൂമെറിക്കൽ രീതികൾ വളരെ നന്നായി വികസിപ്പിച്ചിട്ടില്ല അവർക്ക് നേരെ പോയി പ്രശ്നം പരിഹരിക്കാനാകുമായിരുന്നില്ല അതിനാൽ ഏത് ക്രാക്ക് ആണ് കൂടുതൽ അപകടകരമെന്ന് മനസിലാക്കാൻ അവർ എഞ്ചിനീയറിംഗ് ധാരണകൾ ഉപയോഗിക്കേണ്ടതുണ്ട് നിങ്ങൾ ഇവിടെ എക്സ്പ്രഷൻ കാണുന്നു എന്താണ് ഇവിടെ ശ്രദ്ധേയമായത് ഒരു സെന്റർ ക്രാക്കിന്റെ കാര്യത്തിൽ ക്രാക്കിന്റെ നീളം 2a ആണ് നിങ്ങൾക്ക് സിഗ്മ പൈ എ റൂട്ട് ഓഫ് പൈ എ യുടെ മൂല്യം ലഭിച്ചു അതേസമയം നിങ്ങൾക്ക് ഒരു എഡ്ജ് ക്രാക്ക് ഉണ്ട് അത് ഇതിന്റെ നീളത്തിന്റെ പകുതി മാത്രം ഉള്ളു സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ അതിനേക്കാൾ കൂടുതലാണ് ഇത് വീണ്ടും തിക്നെസ്സ് ക്രാക്കിലൂടെയാണ് എന്താണ് അതിന്റെ പിന്നിലെ വാദം അവർ മുന്നോട്ട് വച്ച വളരെ രസകരമായ ഒരു വാദമാണിത് അതും നാം കാണും ഫൈനൈറ്റ് സ്ട്രിപ്പിലെ ക്രാക്കിന്റെ SIF നിങ്ങൾ നോക്കേണ്ടത് തുല്യ അകലത്തിൽ കോളിനിയർ ക്രാക്കുകൾ എല്ലാ സൊല്യൂഷനുകളുടെയും മാതാവാണ് ഇതിൽ നിന്ന് ഒരു സെന്റർ ക്രാക്ക് മാതൃകയ്ക്കുള്ള SIF സൊല്യൂഷനിൽ നിങ്ങൾ എത്തുന്നു സിംഗിൾ എഡ്ജ് നോച്ച്ഡ് സ്പെസിമെൻസിനായുള്ള SIF എന്താണ് ഡബിൾ എഡ്ജ് നോച്ച്ഡ് സ്പെസിമെൻസിനായി SIF എന്താണ് നിങ്ങൾക്ക് അവയെല്ലാം കാണാൻ കഴിഞ്ഞു ഞാൻ ഇതുപോലെ മുറിക്കുകയാണെങ്കിൽ എനിക്ക് ഈ മാതൃക ലഭിക്കും ഞാൻ ഇതുപോലെ മുറിക്കുകയാണെങ്കിൽ എനിക്ക് ഈ മാതൃക ലഭിക്കും ഞാൻ ഇവിടെയും ഇവിടെയും മുറിക്കുകയാണെങ്കിൽ എനിക്ക് ഡബിൾ എഡ്ജ് നോച്ച്ഡ് സ്പെസിമെൻ ഉണ്ട് നിങ്ങൾ ഇതുപോലെ മുറിക്കുമ്പോൾ എന്തുസംഭവിക്കും നോക്കൂ എനിക്ക് ഇത് ഇവിടെ വലുതാക്കിയ ഒരു എലിപ്സ് ഉണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ചരിവ് ഉണ്ട് സിമെട്രിക് കാരണം ഇത് തിരശ്ചീനമാണ് ഇപ്പോൾ എനിക്ക് വലുതാക്കിയ ഒരൊറ്റ മാതൃക ലഭിക്കണമെങ്കിൽ ഞാൻ അത് ഇവിടെ മുറിക്കണം ഞാൻ ഇവിടെ മുറിക്കുമ്പോൾ എന്ത് സംഭവിക്കും എഡ്ജ് സ്വതന്ത്രമാകുന്നത് കാണുക ഈ ചരിവ് തിരശ്ചീനമായി തുടരണം എന്ന നിബന്ധന ഇല്ല അതിനാൽ ചുരുക്കത്തിൽ ക്രാക്ക് കൂടുതൽ തുറക്കും അതാണ് ഇവിടെ കാണിക്കുന്നത് ചരിവ് തിരശ്ചീനമായി തുടരേണ്ടതില്ല ഒപ്പം ക്രാക്ക് തുറക്കും അതിനാൽ ക്രാക്ക് തുറക്കാൻ നിങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കണം ഇതാണ് വഴി എന്ന് അവർ വാദിച്ചു എനിക്ക് ഇവിടെ ആ ക്രാക്ക് ടിപ്പ് ഉണ്ട് അവർ ഇതിനെ ബാക്ക് ഫ്രീ സർഫേസ് എന്ന് വിളിക്കുന്നു ക്രാക്ക് വലുതാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ഫ്രീ സർഫേസ് ഉണ്ടാകും അതിനാൽ സാഹിത്യത്തിൽ നിങ്ങൾ ബാക്ക് ഫ്രീ സർഫേസ് കറക്ഷൻ ഘടകം ഫ്രണ്ട് ഫ്രീ സർഫേസ് കറക്ഷൻ ഘടകം എന്നിവ കണ്ടെത്തും കാരണം എഞ്ചിനീയർമാർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ബാക്ക് ഫ്രീ സർഫേസ് കറക്ഷൻ ഘടകം 1 1215 ആയി നൽകിയിരിക്കുന്നു ഇത് 1 12 എന്ന് ലളിതമാക്കിയിരിക്കുന്നു അതാണ് നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതെന്താണെന്ന് കാണുക പ്രശ്നം വളരെ സങ്കീർണ്ണമാണ് അവർ മനോഹരമായ എഞ്ചിനീയറിംഗ് ആർഗ്യുമെന്റുകളുമായി വരുന്നു നിങ്ങൾ അതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം a നിങ്ങൾ ഇതുപോലെ മുറിക്കുമ്പോൾ സിമെട്രി കാരണം സെൻട്രൽ ക്രാക്ക് എംബെഡഡ് ആണ് ഈ ചരിവ് തിരശ്ചീനമായി തുടരും എന്നാൽ ഞാൻ ക്രാക്കിന്റെ മധ്യഭാഗത്ത് മുറിക്കുകയാണെങ്കിൽ സിംഗിൾ എഡ്ജ് നോച്ച്ഡ് സ്പെസിമെൻ അല്ലെങ്കിൽ ഡബിൾ എഡ്ജ് നോച്ച്ഡ് മാതൃകകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉയർന്ന സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ഉണ്ടാകുംഇതാണ് സ്ഥിതി ക്രാക്ക് കൂടുതൽ തുറക്കും എനിക്ക് ഇനി ഒരു നീളമുള്ള ക്രാക്ക് ഉണ്ടാകുമ്പോൾ എന്തുസംഭവിക്കും ഈ സൊല്യൂഷൻ പര്യാപ്തമല്ല അതിനാൽ ആളുകൾ ചെയ്തത് ആളുകൾ ബൌണ്ടറി കോലോക്കഷൻ ഉപയോഗിച്ചു ഇത് ഒരു ന്യൂമെറിക്കൽ സാങ്കേതികതയാണ് അവ ബൌണ്ടറി കണ്ടീഷനെ പരമാവധി തൃപ്തിപ്പെടുത്തി അതിനാൽ നിങ്ങൾക്ക് ഒരു സീരീസ് സൊല്യൂഷൻ ലഭ്യമാണ് അങ്ങനെയാണ് ആളുകൾ മുന്നോട്ട് പോയത് ആളുകൾ ഇപ്പോഴും ഇത് ഉപേക്ഷിച്ചിട്ടില്ലെന്ന് കാണുക നിങ്ങൾക്ക് സങ്കീർണ്ണമായ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആളുകൾ അതിൽ ഗവേഷണം നടത്തുകയും വളരെ രസകരമായ സൊല്യൂഷനിൽ എത്തിച്ചേരുകയും ചെയ്തു നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഇത് പ്രയോഗിക്കാനുള്ള ഒരു പരിശീലനം കൂടിയാകും ഇത് ലഭ്യമായ അറിവ് ഉപയോഗിച്ച് ലഭ്യമായവയിൽ നിന്ന് എനിക്ക് ഏതുതരം വാദഗതികൾ മുന്നോട്ട് വയ്ക്കാനും അവ സാധ്യമായത്രയും എക്സ്ട്രാക്റ്റുചെയ്യാനും കഴിയും അവ ലഭ്യമാകുമ്പോൾ പിന്നീട് അത് പരിഹരിക്കാനും അത്യാധുനിക സൊല്യൂഷൻ ഉപയോഗിച്ച് ശരിയാക്കാനും കഴിയും അതിനാൽ എഞ്ചിനീയർമാർ പ്രവർത്തിക്കുന്ന രീതിയാണ് കറക്ഷൻ ഫാക്ടർ അപ്പ്രോച്ച് ഫ്രാക്ചർ മെക്കാനിക്സ് വികസനത്തിൽ അത് വളരെയധികം കാണുന്നു എനിക്ക് ഒരു ലോംഗ് എഡ്ജ് ക്രാക്ക് ഉള്ളപ്പോൾ എനിക്ക് ഇതുപോലുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും ഇത് ബ്രൌൺ സ്ട്രോളി എന്നിവർ കണ്ടെത്തി എഫ്ഐ ഫംഗ്ഷൻ 1 12 മൈനസ് 0 231 ആൽഫ പ്ലസ് 10 55 ആൽഫ സ്ക്വയേർഡ് മൈനസ് 21 72 ആൽഫ ക്യൂബ് പ്ലസ് 30 39 ആൽഫ പവർ 4 ആയി നൽകിയിരിക്കുന്നു കൂടാതെ കൃത്യത ആൽഫ0 6 ആണെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 5 ശതമാനമായി നൽകിയിരിക്കുന്നു എഫ്ഐ ഫംഗ്ഷൻ എങ്ങനെ നിർവചിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ ആൽഫ എങ്ങനെ നിർവചിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ നോക്കേണ്ടതുണ്ട് സെന്റർ ക്രാക്കിന്റെ കാര്യത്തിൽ ആൽഫ 2a ബൈ w ആയി കണ്ടതായി ഓർക്കുക സിംഗിൾ എഡ്ജ് നോച്ച്ഡ് ക്രാക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ അത് a ബൈ w ആയി കണ്ടു അതിനാൽ നിങ്ങൾ ആൽഫയുടെ ശരിയായ മൂല്യം ഉപയോഗിക്കുകയും തുടർന്ന് എക്സ്പ്രഷൻസ് വിലയിരുത്തുകയും വേണം നിങ്ങൾക്ക് ഒരു ഗ്രാഫായി നൽകിയിട്ടുള്ള ഒരു വ്യതിയാനവും ഉണ്ട് ഇത് നിങ്ങൾക്ക് SIF എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന ആശയം നൽകുന്നു ഒരു സെന്റർ ക്രാക്കിന്റെ കാര്യത്തിൽ നിങ്ങൾക്കുള്ളതിനേക്കാൾ വ്യത്യാസം ഇവിടെ കൂടുതലാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ എന്താണ് കണ്ടെത്തുന്നത് ഉള്ളിലുള്ള ഒരു ക്രാക്കിനെക്കാൾ സർഫേസിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ക്രാക്ക് അപകടകരമാണ് ആ അറിവ് വളരെ പ്രധാനമാണ് കാരണം അത് നിങ്ങളെ അലേർട്ട് ചെയ്യണം ഏറ്റവും മോശം അവസ്ഥയിൽ പോലും എനിക്ക് എല്ലായ്പ്പോഴും സിഗ്മ റൂട്ട് പൈ a ഒരു ആരംഭ പോയിന്റായി ഉപയോഗിച്ച് ആരംഭിക്കാൻ കഴിയും തുടർന്ന് ഉചിതമായ കറക്ഷൻ ഘടകങ്ങൾ ഇടുക ഇങ്ങനെയാണ് നിങ്ങൾ SIF ന്റെ സൊല്യൂഷൻ നോക്കേണ്ടത് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇതൊക്കെയാണ് സ്ട്രെസ് ഫംഗ്ഷൻ നിർവചനം ഉപയോഗിച്ച് നമ്മൾ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ വിലയിരുത്തി ക്രാക്ക് ഫേസിൽ ത്രികോണാകൃതിയിലുള്ള ലോഡിംഗിനുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കണ്ടെത്തി മറ്റൊരു പ്രധാന പ്രശ്നം ഒരു പ്രധാന പ്രായോഗിക പ്രശ്നമായ ക്രാക്ക് ഫേസിൽ കോൺസ്റ്റന്റ് പ്രെഷർ വരുമ്പോഴുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ p നോട്ട് റൂട്ട് ബൈ എ ആയി നമ്മൾ കണ്ടെത്തി തുടർന്ന് നമ്മൾ ഇനിഫിനിറ്റ് സ്ട്രിപ്പിൽ തുല്യ അകലത്തിലുള്ള കോലീനിയർ ക്രാക്കുകളിലേക്ക് നീങ്ങി ഞാൻ പറഞ്ഞു ഇത് ഒരു അക്കാദമിക് അഭ്യാസം പോലെ തോന്നുന്നു ഇതിന്റെ ഭംഗി എന്തെന്നാൽ പിൽക്കാല അന്വേഷകർ ഇത് ഒരു തുടക്കമായി കണ്ടു ഒരു സെന്റർ ക്രാക്ക് ഉള്ള ഫൈനൈറ്റ് സ്ട്രിപ്പിന്റെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കണ്ടെത്തുന്നതിന് ഉപയോഗിച്ചു തുടർന്ന് സിംഗിൾ എഡ്ജ്ഡ് ക്രാക്ക് കണ്ടു ഡബിൾ എഡ്ജ് ക്രാക്കിന് എന്താണ് സൊല്യൂഷൻ എന്ന് അടുത്ത ക്ലാസിൽ നമ്മൾ കാണും പിന്നെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മാതൃക പേപ്പർ മാതൃക തകർത്ത ക്ലാസ് പരീക്ഷണം വിശകലനം ചെയ്യുക അവിടെ ഞങ്ങളുടെ സാമാന്യബുദ്ധി പരാജയപ്പെട്ടു സാമാന്യബുദ്ധിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമാണ് നിങ്ങൾ കണ്ടത് ക്രാക്കിന്റെ അടിസ്ഥാനമായി ക്രാക്കിന്റെ നീളം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അതു പ്രവർത്തിക്കില്ല ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യങ്ങളെല്ലാം വികസിപ്പിച്ചുകഴിഞ്ഞാൽ പരീക്ഷണത്തിലെ നമ്മുടെ നിരീക്ഷണം പരിശോധിക്കാൻ നമ്മൾ ഗണിതശാസ്ത്ര കണക്കുകൂട്ടൽ നടത്തുന്നു അതിനാൽ അടുത്ത ക്ലാസിൽ ദയവായി കാൽക്കുലേറ്ററുകളുമായി വരിക